നമുക്ക് DAG കൾ നോക്കുന്നത് തുടരാം ഈ വിഭാഗത്തിൽ ഒരു DAG ലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത തിരിച്ചറിയുന്നത് എന്ന് വിളിക്കുന്ന വ്യത്യസ്ത പ്രശ്നം നോക്കാം അതിനാൽ സംവിധാനം ചെയ്ത അസൈക്ലിക്ക് ഗ്രാഫ് ഒരു സംവിധാനം ചെയ്ത ഗ്രാഫ് മാത്രമാണെന്നും അതിൽ ഏതെങ്കിലും ശീർഷകത്തിൽ നിന്ന് തന്നിലേക്ക് തന്നെ തിരിച്ചുപോകാൻ പാതയില്ലെന്നും അതിനാൽ ഇത് നേരിട്ടുള്ളതും അസൈക്ലിക്ക് ആണെന്നും ഓർക്കുക സംവിധാനം ചെയ്ത ഏത് അസൈക്ലിക് ഗ്രാഫും ടോപ്പോളജിക്കലായി ഓർഡർ ചെയ്യാൻ കഴിയും 1 മുതൽ n വരെയുള്ള വെർട്ടീസുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ n വരെ ഒരു സീക്വൻസായി എഴുതാൻ കഴിയും അങ്ങനെ ഓരോ ജോഡി ജെ കെ എഡ്ജ് ആണെങ്കിൽ ജെ കെ എന്റെ ഗ്രാഫിലെ ഒരു എഡ്ജ് പിന്നെ ജെ ശ്രേണിയിൽ k ന് മുമ്പായി ദൃശ്യമാകും അതിനാൽ ഇവയെ ടാസ്ക്കുകളായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് ഡിപൻഡൻസികളാണെന്നാണ് അർത്ഥമാക്കുന്നത് കെ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ടാസ്ക് ചെയ്യാൻ കഴിയും അത് കെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഞാൻ അത് പൂർത്തിയാക്കുമായിരുന്നു അതിനാൽ ഇതിനെ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ നമുക്ക് DAG കളെക്കുറിച്ചുള്ള വ്യത്യസ്ത ചോദ്യം നോക്കാം അതിനാൽ ഞങ്ങൾക്ക് ഈ DAG ഉണ്ടെന്നും വെർട്ടീസുകൾ കോഴ്സുകളെ പ്രതിനിധീകരിക്കുന്നുവെന്നും അരികുകൾ മുൻവ്യവസ്ഥകളാണെന്നും ഞങ്ങൾ കരുതുന്നു ഇപ്പോൾ ഡിഗ്രി പൂർത്തിയാക്കാൻ ഞങ്ങൾ ചെയ്യേണ്ട കോഴ്സുകളാണ് ഇവ ഓരോ കോഴ്സിനും ഒരു സെമസ്റ്റർ ആവശ്യമാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ ഒന്നിൽ കൂടുതൽ കോഴ്സുകൾ ചെയ്യാൻ കഴിയും അതിനാൽ ഈ മുൻവ്യവസ്ഥകളോടെ ഈ 8 കോഴ്സുകൾ അടങ്ങുന്ന ഈ പ്രോഗ്രാം പൂർത്തിയാക്കേണ്ട ഏറ്റവും കുറഞ്ഞ സെമസ്റ്ററുകളുടെ എണ്ണം എന്താണ് എന്നതാണ് ചോദ്യം അതിനാൽ വ്യക്തമായി എനിക്ക് ആദ്യ സെമസ്റ്ററിൽ 1 2 കോഴ്സുകൾ ഇടാൻ കഴിയും കാരണം അവയ്ക്ക് മുൻവ്യവസ്ഥകളൊന്നുമില്ല അതിനാൽ അവ ഉടനടി ചെയ്യാൻ കഴിയും ഇപ്പോൾ 1 ഉം 2 ഉം ചെയ്താൽ എനിക്ക് 3 ചെയ്യാൻ കഴിയും കാരണം 3 ന് 1 2 എന്നിവ മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ അതുപോലെ എനിക്ക് 4 ഉം 5 ഉം ചെയ്യാൻ കഴിയും കാരണം അവ 1 നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ 8 1 2 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു എനിക്ക് മെറ്റീരിയൽ ആവശ്യമാണ് അല്ലെങ്കിൽ കുറഞ്ഞത് 2 നെ ആശ്രയിച്ചിരിക്കുന്നു എനിക്ക് 2 ചെയ്തു 2 ചെയ്യാൻ 8 ആവശ്യമാണ് പക്ഷേ എനിക്ക് ഇപ്പോഴും 8 ചെയ്യാൻ കഴിയില്ല കാരണം ഇതിന് 5 4 7 എന്നിവയും ആവശ്യമാണ് അതിനാൽ ഈ സമയത്ത് ഞങ്ങൾ 3 4 5 അതിനാൽ എന്റെ രണ്ടാം സെമസ്റ്ററിൽ എനിക്ക് 3 4 5 എന്നിവ ചെയ്യാൻ കഴിയും ഇപ്പോൾ എല്ലാ സൌജന്യ മുൻവ്യവസ്ഥകളും തൃപ്തിപ്പെടുത്തുന്ന ഒരേയൊരു കോഴ്സ് 6 ആണ് 7 ന് 6 ആവശ്യമാണ് അത് ചെയ്യാത്തതും 8 ന് 7 ഉം ആവശ്യമാണ് അതിനാൽ മൂന്നാം സെമസ്റ്ററിൽ 6 എന്ന ഒരു കോഴ്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നാലാം സെമസ്റ്ററിൽ എനിക്ക് 7 ചെയ്യാൻ കഴിയും ഒടുവിൽ 5 സെമസ്റ്ററുകൾക്ക് ശേഷം എനിക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിയും അതിനാൽ പൊതുവേ നമുക്ക് ഈ ചോദ്യം ചോദിക്കാൻ കഴിയും ഇവ DAG കോഴ്സുകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ സെമസ്റ്ററുകളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം എന്താണ് ഇപ്പോൾ ഈ പ്രശ്നം DAG ലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത ചോദിക്കുന്നതിനോട് യോജിക്കുന്നു ഞങ്ങൾ പറയുന്നത് 8 പൂർത്തിയാക്കാൻ 5 സെമസ്റ്ററുകൾ എടുക്കുന്നു എന്നതാണ് കാരണം ഡിപൻഡൻസികളുടെ ഒരു ശൃംഖലയുണ്ട് അവിടെ 8 ആശ്രയിച്ചിരിക്കുന്നു 7 7 6 നെ ആശ്രയിച്ചിരിക്കുന്നു 6 എന്നത് 3 അല്ലെങ്കിൽ 4 എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കാര്യമില്ല 3 എന്നത് 1 നെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ ഈ ചെയിൻ 4 സെമസ്റ്ററുകൾ ചെലവഴിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു കാരണം ഇത് 4 4 സെമസ്റ്ററുകളുടെ നീളമുള്ള ഒരു ശൃംഖലയാണ് ചെയ്യാൻ കഴിയും 8 ഇത് ഏറ്റവും ചെറിയ ശൃംഖലയല്ലെന്ന് ശ്രദ്ധിക്കുക കാരണം ചെറിയ ശൃംഖലകളുണ്ട് ഉദാഹരണത്തിന് 8 മുതൽ 2 വരെ ഡിഗ്രി 0 ഉള്ള ഒരു ശീർഷകത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു പക്ഷേ ഇത് ഞങ്ങളെ സഹായിക്കുന്നില്ല കാരണം 2 ന് ശേഷം എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല അതിനാൽ ജോലി പൂർത്തിയാക്കുന്നതിന് 8 ന് മുമ്പ് സംഭവിക്കേണ്ട എല്ലാത്തിനും ഞാൻ കാത്തിരിക്കണം അതിനാൽ ഞങ്ങൾ ഹ്രസ്വമായ പാതകൾ തിരയുന്ന മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഞങ്ങൾക്ക് ദൈർഘ്യമേറിയ പാതയിൽ താൽപ്പര്യമുണ്ട് അതിനാൽ നമുക്ക് ഈ പ്രശ്നം ഇനിപ്പറയുന്ന രീതിയിൽ സജ്ജമാക്കാൻ കഴിയും അതിനാൽ ഡിഗ്രി 0 ഉള്ള ഏതൊരു വെർട്ടെക്സിനും ആ ശീർഷകത്തിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത നീളം 0 ആണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം എനിക്ക് ഉടനടി അത് ചെയ്യാൻ കഴിയും മറുവശത്ത് എനിക്ക് ഡിഗ്രി 0 അല്ലാത്ത ഒരു ശീർഷകം ഉണ്ടെങ്കിൽ അതിന് ഇൻകമിംഗ് ചില അരികുകളുണ്ട് അതിനാൽ എനിക്ക് ഒരു ശീർഷകം ഉണ്ട് അതിനാൽ ഇവയെല്ലാം പൂർത്തിയാകുന്നതുവരെ ഞാൻ കാത്തിരിക്കണം തുടർന്ന് അത് ചെയ്യുക അതിനാൽ ഇവയെല്ലാം ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവയ്ക്കെല്ലാം ഇടയിൽ ഞാൻ പരമാവധി ദൈർഘ്യം എടുക്കും കാരണം അത് അവസാനിപ്പിക്കാനുള്ള അവസാന കാര്യമായിരിക്കും അതിനുശേഷം k നായി പ്ലസ് 1 അക്കൌണ്ട് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഡിഗ്രി 0 അല്ലെങ്കിൽ k യിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാതയ്ക്ക് ദൈർഘ്യം 1 ഉം അതിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത ഇൻകമിംഗ് അയൽക്കാർക്കും ഉണ്ട് അതിനാൽ k യിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത കണക്കുകൂട്ടാൻ ഇൻകമിംഗ് അയൽവാസികളിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത ഞാൻ കണക്കാക്കേണ്ടതുണ്ട് ഇപ്പോൾ ടോപ്പോളജിക്കൽ ക്രമത്തിൽ വെർട്ടീസുകൾ ക്രമീകരിച്ച് ആ ശ്രേണിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത ഞങ്ങൾ കണക്കുകൂട്ടുകയാണെങ്കിൽ നമ്മൾ k ലേക്ക് എത്തുമ്പോൾ ഇൻകമിംഗ് അയൽവാസികളായ ഓരോരുത്തരും അതിൽ അവശേഷിക്കും അതിനാൽ ഇത് ഏറ്റവും ദൈർഘ്യമേറിയ പാതയാണെന്ന് ഞങ്ങൾ ഇതിനകം കണക്കുകൂട്ടും അതിനാൽ ഇവയുടെ പരമാവധി എണ്ണം എടുത്ത് അവ ചേർക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിനാൽ ഈ വെർട്ടീസുകളെ ടോപ്പോളജിക്കൽ ക്രമത്തിൽ അടുക്കുന്നതിലൂടെ അതേ ക്രമത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പാത കണക്കുകൂട്ടാൻ എനിക്ക് കഴിയും വെർട്ടെക്സ് ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത കണക്കുകൂട്ടാൻ ഞാൻ താൽപ്പര്യപ്പെടുമ്പോൾ ലഭ്യമായ എല്ലാ വിവരങ്ങളും അത് ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ദൈർഘ്യമേറിയ പാത ഇൻകമിംഗ് അയൽവാസികളാണ് അതിനാൽ ഞാൻ നിഷ്കളങ്കമായി ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ ശീർഷകങ്ങൾ ചില ടോപ്പോളജിക്കൽ ക്രമത്തിൽ എഴുതുകയും ഇപ്പോൾ ഞാൻ ഈ ശീർഷകത്തിലേക്ക് വരുമ്പോൾ അത് കണക്കാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ പാതയാണ് എന്റെ ഗ്രാഫിൽ ഇൻകമിംഗ് എല്ലാ അരികുകളും ഞാൻ നോക്കും എല്ലാം മുമ്പ് ദൃശ്യമാകുന്ന ലംബങ്ങളിൽ നിന്നുള്ളവയാണ് അതിനാൽ എനിക്ക് ഇവിടെ മൂല്യം ഇവിടെ മൂല്യം ഇവിടെയുള്ള മൂല്യം എന്നിവ എടുത്ത് അത് പരമാവധി എടുത്ത് ഇവിടെ ചേർക്കാം അതിനാൽ നിങ്ങൾ ഇത് പിന്നോക്കമായി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞങ്ങൾ കാണും നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിനാൽ ഞാൻ നിഷ്കളങ്കമായി ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്റെ ശീർഷകങ്ങൾ ചില ടോപ്പോളജിക്കൽ ക്രമത്തിൽ എഴുതുകയും ഇപ്പോൾ ഞാൻ ഈ ശീർഷകത്തിലേക്ക് വരുമ്പോൾ അത് കണക്കാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ പാതയാണ് എന്റെ ഗ്രാഫിൽ ഇൻകമിംഗ് എല്ലാ അരികുകളും ഞാൻ നോക്കും എല്ലാം മുമ്പ് ദൃശ്യമാകുന്ന ലംബങ്ങളിൽ നിന്നുള്ളവയാണ് അതിനാൽ എനിക്ക് ഇവിടെ മൂല്യം ഇവിടെ മൂല്യം ഇവിടെയുള്ള മൂല്യം എന്നിവ എടുത്ത് അത് പരമാവധി എടുത്ത് ഇവിടെ ചേർക്കാം അതിനാൽ നിങ്ങൾ ഇത് പിന്നോക്കമായി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞങ്ങൾ കാണും നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിനാൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് i k യിലെ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും കാരണം പിന്നിലേക്ക് പോകുന്നതിന് നിങ്ങൾ ഈ ലിസ്റ്റ് സ്കാൻ ചെയ്യാനും ഇൻകമിംഗ് അയൽക്കാരെയെല്ലാം തിരയാനും ആവശ്യപ്പെടുന്നു അതിനാൽ അടുത്ത ഉദാഹരണത്തിൽ നമ്മൾ കാണുന്നത് പോലെ ടോപ്പോളജിക്കൽ സോർട്ടിംഗിനൊപ്പം ഈ ദൈർഘ്യമേറിയ പാത്ത് കണക്കുകൂട്ടൽ ഞങ്ങൾ പരോക്ഷമായി ചെയ്യും അതിനാൽ ടോപ്പോളജിക്കൽ ക്രമം കണക്കാക്കുമ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ പാത കണക്കാക്കാൻ പോകുന്ന ഒരു ഉദാഹരണം ഇതാ അതിനാൽ ഞാൻ നൽകിയ ചുവന്ന സംഖ്യകൾക്ക് മുമ്പുള്ളതുപോലെ വെർട്ടീസുകൾ ടോപ്പോളജിക്കൽ സോർട്ടിംഗിനായി ഉപയോഗിക്കുന്നു അവ സൂചകങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ ഞങ്ങളുടെ ഗ്രാഫിലെ പ്രാരംഭ അരികുകളും ഞങ്ങൾ ചെയ്യുന്നതും പ്രാരംഭ അഗ്രിഗികൾ നൽകുന്നു ഓരോ ശീർഷകത്തിലേക്കും ഏറ്റവും ദൈർഘ്യമേറിയ പാത യഥാർത്ഥത്തിൽ 0 ആണെന്ന് കരുതി ആരംഭിച്ച് ഞങ്ങൾ ഏറ്റവും ദൈർഘ്യമേറിയ പാത കണക്കാക്കുന്നു ഇപ്പോൾ ഒരു ടോപ്പോളജിക്കൽ സോർട്ടിൽ ഒരു ശീർഷകം കണക്കാക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ ചെയ്തത് ഡിഗ്രികൾ അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നു അതിനാൽ ഇത് ഞങ്ങൾ ഇതിനകം ചെയ്ത കാര്യമാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അധിക കാര്യം 3 4 5 എന്നിവയ്ക്ക് മുമ്പായി 1 എന്ന ശീർഷകം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 3 4 5 0 എന്നിവയുടെ ഇൻകമിംഗ് അരികുകളിൽ എനിക്ക് അറിയാവുന്ന മൂല്യങ്ങൾ പരമാവധി നീളം അതിനാൽ ഞാൻ 1 പ്ലസ് അത് ചെയ്യണം അതിനാൽ ഈ പാതകളുടെ ദൈർഘ്യം കുറഞ്ഞത് 1 ആണ് അതിനാൽ 3 4 5 എന്നിവയിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത കുറഞ്ഞത് 1 ആണ് ഇപ്പോൾ ഞാൻ ശീർഷകം 4 കണക്കാക്കിയാൽ അത് ഏറ്റവും ദൈർഘ്യമേറിയ പാത കുറഞ്ഞത് 1 ആണ് അതിനാൽ 6 ലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത കുറഞ്ഞത് 1 പ്ലസ് 1 ആയിരിക്കണം അതുപോലെ 8 ലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത കുറഞ്ഞത് 1 പ്ലസ് 1 ഉം ആയിരിക്കണം തീർച്ചയായും ഡിഗ്രികളും മുമ്പത്തെപ്പോലെ കുറയും അതിനാൽ 6 ന്റെ ഡിഗ്രി 1 ലേക്ക് പോകുന്നു 8 ന്റെ ഡിഗ്രി 3 ലേക്ക് പോകുന്നു എന്നാൽ 6 ലേക്ക് നീളമുള്ള പാത ഇപ്പോൾ 4 പ്ലസ് 1 ലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാതയാണ് അതിനാൽ ഇത് 2 ആണ് ഇത് 8 ന് തുല്യമാണ് ഇപ്പോൾ ഞാൻ 2 എന്ന ശീർഷകം കണക്കാക്കുന്നു ഇപ്പോൾ 2 വീണ്ടും ഏറ്റവും ദൈർഘ്യമേറിയ പാത എന്ന് പറയും കാരണം 2 ന്റെ ദൈർഘ്യമേറിയ പാത 3 ആണ് പക്ഷേ ഇത് ഇതിനകം 1 ആണ് അതിനാൽ ഞങ്ങൾ ഇത് മാറ്റുന്നില്ല ഇത് 2 കാരണം 8 ലേക്കുള്ള ദൈർഘ്യമേറിയ പാത കുറഞ്ഞത് 1 ആണെന്ന് പറയും പക്ഷേ ഇത് കുറഞ്ഞത് 2 ആണെന്ന് നമുക്കറിയാം അതിനാൽ വീണ്ടും ഞങ്ങൾ മാറുന്നില്ല അതിനാൽ ഞങ്ങൾ ഒരു നോഡ് ഇല്ലാതാക്കുമ്പോൾ അടിസ്ഥാനപരമായി ഏറ്റവും ദൈർഘ്യമേറിയ പാതയുടെ നിലവിലെ മൂല്യം ഞങ്ങൾ going ട്ട്ഗോയിംഗ് കാര്യം പ്ലസ് 1 ഇല്ലാതാക്കിയ നോഡിന്റെ നിലവിലെ മൂല്യം പ്ലസ് 1 എന്നിവയും നോഡിൽ ഇതിനകം അറിയപ്പെടുന്നവയും ഞങ്ങൾ പരമാവധി നിലനിർത്തുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് 1 ആയി മാറും ഈ 3 2 ആയി മാറും എന്നാൽ ഇവിടെ മാറ്റമില്ല ഇവിടെ മാറ്റമില്ല അതുപോലെ തന്നെ ഞാൻ ഈ 5 നീക്കംചെയ്യുമ്പോൾ ഇത് 2 ആയി മാറും പക്ഷേ 1 പ്ലസ് 1 2 ആയതിനാൽ 8 ന് കുറഞ്ഞത് 2 ന്റെ ഏറ്റവും ദൈർഘ്യമേറിയ പാത ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം 2 ൽ ഞങ്ങൾ ഒരു മാറ്റവും വരുത്തുന്നില്ല ഇപ്പോൾ ഞങ്ങൾ 3 ലേക്ക് പോകുമ്പോൾ 3 ന് 1 ന്റെ ദൈർഘ്യമേറിയ പാതയുണ്ടെന്ന് പറയുന്നു അതിനാൽ 3 കാരണം ഏറ്റവും ദൈർഘ്യമേറിയ പാത 6 എങ്കിലും 2 ആണ് പക്ഷേ ഇത് 2 ആണെന്ന് നമുക്കറിയാം അതിനാൽ വീണ്ടും ഒരു മാറ്റവുമില്ല ഇപ്പോൾ ഞങ്ങൾ രസകരമായ എന്തെങ്കിലും ചെയ്യും അതിനാൽ 6 ന് 2 ന്റെ ദൈർഘ്യമേറിയ പാതയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നു 7 ഇതിന് ഏറ്റവും ദൈർഘ്യമേറിയ പാത 0 ഉണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചു പക്ഷേ 6 ലൂടെ ഇതിന് ഒരു നീണ്ട പാതയുണ്ട് അതിനാൽ 7 ലേക്കുള്ള പാത ഇപ്പോൾ 0 മുതൽ 3 വരെ അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോൾ ഇത് കാരണം ഞങ്ങൾ 7 മുതൽ 8 വരെ പോകുമ്പോൾ 8 നുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത 2 മുതൽ 4 വരെ അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോൾ അവസാനമായി ഇത് എന്റെ അവസാന ശീർഷകമാണ് അതിനാൽ ഞാൻ കണക്കാക്കുകയും അതിന്റെ ദൈർഘ്യമേറിയ പാത 4 ആയി കണക്കാക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഏറ്റവും ദൈർഘ്യമേറിയ പാത 4 ആണെന്ന് പറയുന്നു ഇപ്പോൾ ഞങ്ങൾ 5 സെമസ്റ്ററിലാണ് ചെയ്തതെന്ന് ഞങ്ങൾ പറഞ്ഞു അടിസ്ഥാനപരമായി ഇതേ ഉദാഹരണം അർത്ഥമാക്കുന്നത് ആദ്യ സെമസ്റ്ററിൽ ഏറ്റവും ദൈർഘ്യമേറിയ പാത 0 ഉള്ളവരെല്ലാം രണ്ടാമത്തെ സെമസ്റ്റർ ഏറ്റവും ദൈർഘ്യമേറിയ പാത ഉള്ളവരെല്ലാം 1 ആണ് അതിനാൽ നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അതേ ശ്രേണി ഞങ്ങൾക്ക് ഉണ്ട് അതിനാൽ നിങ്ങൾ ആദ്യം 1 2 എന്നിവ ആദ്യ സെമസ്റ്ററിൽ ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾ 3 4 5 എന്നിവ രണ്ടാം സെമസ്റ്ററിൽ ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾ മൂന്നാം സെമസ്റ്ററിൽ 6 ഉം നാലാം സെമസ്റ്ററിൽ 7 ഉം അഞ്ചാം സെമസ്റ്ററിൽ 8 ഉം ചെയ്യുന്നു അതിനാൽ ഞങ്ങളുടെ പ്രാരംഭ ഉദാഹരണത്തിൽ അന mal പചാരികമായി ഞങ്ങൾ നേടിയ കൃത്യമായ പരിഹാരമാണിത് അതിനാൽ ദൈർഘ്യമേറിയ പാതയ്ക്കുള്ള ഈ കപട കോഡ് ടോപ്പോളജിക്കൽ സോർട്ടിംഗിനായി ഞങ്ങൾ ചെയ്തതിനോട് വളരെ സാമ്യമുള്ളതാണ് ഈ അധിക ദൈർഘ്യമേറിയ പാത്ത് മൂല്യത്തിന്റെ ട്രാക്ക് ഞങ്ങൾ സൂക്ഷിക്കുന്നു അതിനാൽ ഞങ്ങൾ ഡിഗ്രി സമാരംഭിക്കുമ്പോൾ ഓരോ ശീർഷകത്തിനും 0 ആയിരിക്കാനുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാതയും ഞങ്ങൾ ആരംഭിക്കുന്നു അതിനാൽ ഞങ്ങൾ ആദ്യം വീണ്ടും സമീപസ്ഥല ലിസ്റ്റ് പതിപ്പ് ചെയ്യുന്നു അതിനാൽ ഓരോ ശീർഷകത്തിനും ഞങ്ങൾ ചതുരാകൃതിയിലുള്ള ജോലികൾ ചെയ്യുന്നു എൻട്രി കോളം എൻട്രി i ഉപയോഗിച്ച് സമീപത്തുള്ള മാട്രിക്സിന്റെ കോളം കൊണ്ട് ഞങ്ങൾ ഡിഗ്രി കണക്കാക്കുന്നു അതിനാൽ ദൈർഘ്യമേറിയ പാതയ്ക്കുള്ള ഈ കപട കോഡ് ടോപ്പോളജിക്കൽ സോർട്ടിംഗിനായി ഞങ്ങൾ ചെയ്തതിനോട് വളരെ സാമ്യമുള്ളതാണ് ഈ അധിക ദൈർഘ്യമേറിയ പാത്ത് മൂല്യത്തിന്റെ ട്രാക്ക് ഞങ്ങൾ സൂക്ഷിക്കുന്നു അതിനാൽ ഞങ്ങൾ ഡിഗ്രി സമാരംഭിക്കുമ്പോൾ ഓരോ ശീർഷകത്തിനും 0 ആയിരിക്കാനുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാതയും ഞങ്ങൾ ആരംഭിക്കുന്നു അതിനാൽ ഞങ്ങൾ ആദ്യം വീണ്ടും സമീപസ്ഥല ലിസ്റ്റ് പതിപ്പ് ചെയ്യുന്നു അതിനാൽ ഓരോ ശീർഷകത്തിനും ഞങ്ങൾ ചതുരാകൃതിയിലുള്ള ജോലികൾ ചെയ്യുന്നു എൻട്രി കോളം എൻട്രി i ഉപയോഗിച്ച് സമീപത്തുള്ള മാട്രിക്സിന്റെ കോളം കൊണ്ട് ഞങ്ങൾ ഡിഗ്രി കണക്കാക്കുന്നു അതിനാൽ ഇതിന് സങ്കീർണ്ണമായ ഓർഡർ n സ്ക്വയറുകളുണ്ട് അതേ കാരണത്താലാണ് ഞങ്ങൾ ടോപ്പോളജിക്കൽ ഹ്രസ്വമായ അഡ്ജൻസി മാട്രിക്സ് അല്ലെങ്കിൽ ഓർഡർ എൻ സ്ക്വയറിനൊപ്പം കണ്ടെത്തിയത് കാരണം എല്ലാ അയൽവാസികളെയും സ്കാൻ ചെയ്യുന്നതിനായി ഞങ്ങൾക്ക് നെസ്റ്റഡ് ലൂപ്പുകൾ ഉണ്ട് അതിനാൽ മുമ്പ് ഈ മുഴുവൻ കാര്യങ്ങളും സമീപസ്ഥല പട്ടികയും ഒരു ക്യൂവും ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ തിരികെ പോയി ടോപ്പോളജിക്കൽ ഓർഡറിംഗ് അൽഗോരിതം നോക്കുകയാണെങ്കിൽ ദൈർഘ്യമേറിയ പാത്ത് ഒരു അധിക കമ്പ്യൂട്ട് ചെയ്യുന്നതിന് സമാന മാറ്റങ്ങൾ ആവശ്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഞങ്ങൾ ആരംഭിക്കുന്നത് വീണ്ടും ആരംഭിക്കുന്നത് ഓരോ ശീർഷകത്തിനും ഞങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെയാണ് അതിനാൽ ഇത് ഒരു ഓർഡറാണ് ഘട്ടം ഞങ്ങൾ ഡിഗ്രിയും ദൈർഘ്യമേറിയ പാതയും സമാരംഭിക്കുന്നു അതിനുശേഷം ഞങ്ങൾ എല്ലാ സമീപസ്ഥല പട്ടികയിലൂടെയും ഈ ക്രമം ഒന്നിച്ച് പ്രാരംഭ അഗ്രിഗുകൾ കണക്കുകൂട്ടുന്നു ഈ ക്യൂ സജ്ജീകരിക്കുന്നതിന് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഓർഡർ n സ്റ്റെപ്പ് ഉണ്ട് അവിടെ ഞങ്ങൾ ടോപ്പോളജിക്കൽ ഓർഡറിംഗ് പ്രോസസ്സ് ചെയ്യും എന്നിട്ട് നമ്മൾ ഓർഡർ n ന്റെ ബാഹ്യ ലൂപ്പ് ചെയ്യുന്നു അതിനാൽ ഇത് ഒരു ഓർഡർ n ലൂപ്പാണ് കാരണം എല്ലാം പോകുന്നു ക്യൂവിലേക്ക് ഒരുതവണ പുറത്തുവരുന്നു അതിനാൽ ഞങ്ങൾ ക്യൂവിൽ നിന്ന് n തവണ നീക്കംചെയ്യാൻ പോകുന്നു ഇപ്പോൾ ഞങ്ങൾ എല്ലാ n ആവർത്തനങ്ങളിലും ലിസ്റ്റ് സ്കാൻ ചെയ്യുന്നതിനാൽ ഓരോ അരികിലും ഒരു തവണ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നു അതിനാൽ ഈ ലൂപ്പിൽ ചെയ്ത ആകെ ജോലികൾ ഓർഡർ n ആയിരിക്കും അതിനാൽ ഡിഗ്രി അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നു നിലവിലെ മൂല്യത്തിന്റെ പരമാവധി 1 ഉം നിലവിലെ നോഡിന്റെ മൂല്യവും k എന്നതിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാത ഞങ്ങൾ അപ്ഡേറ്റുചെയ്യുന്നു കൂടാതെ k ഇപ്പോൾ ഡിഗ്രി 0 ലേക്ക് ഒരു ശീർഷകമായി മാറിയെന്ന് കണ്ടെത്തിയാൽ ഞങ്ങൾ കീയിലേക്ക് ചേർത്തു അതിനാൽ DAG കൾ വളരെ ഉപയോഗപ്രദമാണ് കാരണം നിരവധി സാഹചര്യങ്ങളുണ്ട് അവിടെ വിവിധ വസ്തുക്കൾക്കിടയിൽ ആശ്രിതത്വത്തെ മാതൃകയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ടോപ്പോളജിക്കൽ ഓർഡറിംഗ് എന്നത് ഡിപൻഡൻസികൾ ലംഘിക്കാതെ വെർട്ടീസുകൾ ലിസ്റ്റുചെയ്യുന്നതിനുള്ള ഒരു കാനോനിക്കൽ അൽഗോരിതം ആണ് ഇന്ന് നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് DAG യിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാതയും DAG യിലേക്കുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പാതയും ചില അർത്ഥത്തിൽ കണക്കാക്കാം ഒരു DAG ലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത എല്ലാ ലംബങ്ങളും കണക്കാക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഞങ്ങൾ ഗ്രൂപ്പുകളിലുള്ള കോഴ്സുകളിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂട്ടാനും ഒരേ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു കൂട്ടം കോഴ്സുകൾ പൂർത്തിയാക്കുന്നതിന് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സെമസ്റ്ററുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ് ടാസ്ക്കുകളുടെ ഗണം പൂർത്തിയാക്കാനുള്ള ദിവസങ്ങൾ ദൈർഘ്യമേറിയ പാതയാണ് നൽകുന്നത് നിയന്ത്രിതമായതിനാൽ DAG കൾ കാരണം ഏറ്റവും ദൈർഘ്യമേറിയ പാതയ്ക്കായി ലീനിയർ ടൈം അൽഗോരിതം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് പ്രധാനമാണ് ഡിഎജികൾ ആവശ്യമില്ലാത്ത അനിയന്ത്രിതമായ ഗ്രാഫുകൾ ഞങ്ങൾ നോക്കിയാൽ തീർച്ചയായും ദൈർഘ്യമേറിയ പാത കണ്ടെത്താൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഞങ്ങൾക്ക് ലൂപ്പുകളുണ്ടെങ്കിൽ ദൈർഘ്യമേറിയ പാത നിർവചിക്കപ്പെടില്ല കാരണം ലൂപ്പിനുചുറ്റും ചുറ്റിലും പോകാൻ കഴിയും അതിനാൽ തനിപ്പകർപ്പുകളില്ലാത്ത വെർട്ടീസുകളുടെ ഒരു ശ്രേണി ഉള്ള ഒരു ദൈർഘ്യമേറിയ പാത ഞങ്ങൾ നിർവചിക്കുകയാണെങ്കിൽ അതിനാൽ നീളം പരമാവധി 10 ആണ് പിന്നെ അനിയന്ത്രിതമായ ഗ്രാഫ് ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞ പ്രശ്നമാണ് കൂടാതെ കാര്യക്ഷമമായ അൽഗോരിതം ഇല്ല വാസ്തവത്തിൽ ഇത് വളരെയധികം സംവേദനാത്മക പ്രശ്നങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് അവയെല്ലാം പരസ്പരം തുല്യമാണ് എല്ലാവരും വളരെ കഠിനമാണെന്ന് വിശ്വസിക്കുന്നു അതിനാൽ നിരവധി പ്രായോഗിക ആപ്ലിക്കേഷനുകളുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാര്യക്ഷമമായ പരിഹാരങ്ങൾ അംഗീകരിക്കുന്നതുമായ ഗ്രാഫുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപവിഭാഗമാണ് ഡിഎജികൾ അവ പൊതുവായ അൽഗോരിതം എളുപ്പത്തിലും ഗ്രാഫുകളുടെ മുഴുവൻ ക്ലാസിലും ഇല്ല